ആഗിരണം ചെയ്യുന്ന അതിർത്തി വ്യവസ്ഥകൾ 1D ശരി ഇപ്പോൾ നമുക്ക് അടുത്ത മൊഡ്യൂളിലേക്ക് പോകാം ഇവിടെ നമ്മൾ നോക്കുന്നത് അതിർത്തി വ്യവസ്ഥകൾ ആഗിരണം ചെയ്യുന്നുണ്ടോ എന്നാണ് അതിനാൽ നമ്മൾ എല്ലാ അടിസ്ഥാന വസ്തുതകളും ഒരുമിച്ച് ചേർക്കുന്നു ആദ്യം അപ്ഡേറ്റ് സമവാക്യങ്ങൾ നോക്കാം അതിൽ സ്ഥലവും സമയവും നമ്മൾ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യും തുടർന്ന് നമ്മൾ അതിനകത്ത് ഒരു വസ്തു വെയ്ക്കുന്നു അതിലൂടെ എങ്ങനെ ഒരു റിയലിസ്റ്റിക് വസ്തു കൈകാര്യം ചെയ്യും എന്ന് നമുക്ക് നോക്കാം അടുത്ത കാര്യം നമുക്ക് എവിടെയെങ്കിലും ഒരു കമ്പ്യൂട്ടേഷണൽ അതിർത്തി അവസാനിപ്പിക്കേണ്ടതുണ്ട് അത് എങ്ങനെ ശരിയായി അവസാനിപ്പിക്കാം എന്ന് നോക്കാം അതിനാൽ ഇവിടെ അതിർത്തി വ്യവസ്ഥകൾ ആഗിരണം ചെയ്യുന്നു ഈ ആഗിരണം ചെയ്യുന്ന അതിർത്തി വ്യവസ്ഥകൾ FEM എന്നതിൽ നമ്മൾ പഠിച്ചതിന് സമാനമാണ് പക്ഷേ ഇപ്പോൾ നമ്മൾ അത് FDTD യുടെ അടിസ്ഥാനത്തിൽ നൽകണം അതിനാൽ FEM മാതൃക കണ്ട നിങ്ങളിൽ ചിലർക്ക് ഇത് വീണ്ടും ഒരു പുനരവലോകനം പോലെയാകും അതിനാൽ പൊതുവായി ആഗിരണം ചെയ്യുന്ന അതിർത്തി വ്യവസ്ഥകളെ നമ്മൾ ABC കൾ അഥവാ അബ്സോർബിംഗ് ബൌണ്ടറി കണ്ടീഷൻസ് എന്ന് വിളിക്കുന്നു അവ മൂന്ന് ഇനങ്ങളിൽ വരുന്നു ഇത് FDTD ക്ക് മാത്രമല്ല CEM എന്നതിനും സമാനമാണ് അതിനാൽ ഇത് പൊതുവായി CEM തന്നെ ആണ് അതിനാൽ ഇത് കമ്പ്യൂട്ടേഷണൽ അതിർത്തി Γ ആണെന്ന് നമുക്ക് പറയാം അതിനാൽ ആദ്യത്തെ ഇനത്തെ പ്രാദേശിക ABC എന്ന് വിളിക്കുന്നു ഒരു പ്രാദേശിക ABC യുടെ അർത്ഥമെന്താണ് അവയുടെ അതിരുകളുടെ ഈ ഭാഗം ഫീൽഡിന്റെ പ്രാദേശിക മൂല്യങ്ങളെ മാത്രം ആശ്രയിച്ചാണിരിക്കുന്നത് എന്നാണ് ഇത് അർത്ഥമാക്കുന്നത് അത് മറ്റൊന്നിനെയും ആശ്രയിക്കുന്നില്ല അതായത് ആ വാക്കിൽ തന്നെ പ്രാദേശിക ABC എന്നുണ്ട് ഉദാഹരണത്തിന് FEM ൽ ഒരു പ്രത്യേക ഡെറിവേറ്റീവ് ആയ dEdx എന്നത് jkE ഉപയോഗിച്ച് മാറ്റിയതായി നമ്മൾ കണ്ടിരുന്നു അതിനാൽ ആ ഘട്ടത്തിലെ ഫീൽഡിന്റെ മൂല്യം ആ പോയിൻ്റിനെ മാത്രം ആശ്രയിച്ചാണ് മറ്റൊരിടത്തും അതിൻറെ ആശ്രയത്വം ഉണ്ടാകുകയില്ല ഇത് നടപ്പിലാക്കാനുള്ള ഏറ്റവും ലളിതമായ മാർഗമാണിത് രണ്ടാമത്തേത് ഒരു ആഗോള ABC ആണ് അതായത് ഈ അതിർത്തി വ്യവസ്ഥ നടപ്പിലാക്കാൻ അതിർത്തിയിലെ എല്ലാ ഫീൽഡുകളുടെയും മൂല്യം നമ്മൾ അറിയേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ നിങ്ങൾ ഇത് ഇതിനകം കണ്ടതായിരിക്കും ഇന്റഗ്രൽ സമവാക്യ രീതിയുടെ കാര്യത്തിൽ നിങ്ങൾ അതിരുകളിൽ ഒരു അതിർത്തി ഇന്റഗ്രൽ എഴുതുമ്പോൾ ആ ഒരു സമവാക്യത്തിൽ അതിർത്തിയ്ക്കൊപ്പം എല്ലാ ഫീൽഡുകളും ഉൾപ്പെടുന്നു അതിനാൽ അതും അതിർത്തി വ്യവസ്ഥയാണ് കാരണം നിങ്ങൾ അത് അതിർത്തിയിൽ മാത്രം നിർബന്ധിതമാക്കുന്നു എന്നാൽ അതാണ് ആഗോള അതിർത്തി വ്യവസ്ഥകൾ ഇത് ഇവയെല്ലാം ആശ്രയിച്ചിരിക്കുന്നു കൂടാതെ യഥാർത്ഥത്തിൽ വാണിജ്യ സോഫ്റ്റ്വെയറുകളിൽ വളരെ പ്രചാരമുള്ള മൂന്നാമത്തേതിനെ ആഗിരണം ചെയ്യുന്ന മാധ്യമം എന്ന് വിളിക്കുന്നു അതിനാൽ ഇതിൽ ഏറ്റവും പ്രചാരമുള്ളത് പി എൽ എന്ന് വിളിക്കുന്നു അതായത് മികച്ച പൊരുത്തമുള്ള പാളികൾ അവയെക്കുറിച്ച് നമ്മൾ പിന്നീട് നോക്കുന്നതാണ് അതിനാൽ ഇവിടെ ആശയം എന്തെന്നാൽ നിങ്ങൾ ആഗിരണ സവിശേഷതയുള്ള മറ്റൊരു വസ്തു ഇവിടെ ചേർക്കുന്നു എന്നതാണ് അതിനാൽ തരംഗത്തെ ആഗിരണം ചെയ്ത് വീണ്ടും അത് തിരികെ അയക്കാത്ത അതായത് സംഖ്യാപരമായ പ്രതിഫലനം ഇല്ലാത്ത ഒരു മെറ്റീരിയൽ ഞാൻ ഇവിടെ രൂപകൽപ്പന ചെയ്യേണ്ടതുണ്ട് അതിനാൽ ഇവയാണ് മൂന്ന് കാര്യങ്ങൾ അവ നമുക്ക് എന്താണെന്ന് നോക്കാം അതിനാൽ നമ്മൾ യഥാർത്ഥത്തിൽ FEM ലെ പ്രാദേശിക ABC കൾ കണ്ടിട്ടുണ്ട് നിങ്ങൾ ആഗോള ABC കളെ ഇന്റഗ്രൽ സമവാക്യ രീതികളിൽ കണ്ടിട്ടുണ്ട് ആഗിരണം ചെയ്യുന്ന മാധ്യമങ്ങളെ കുറിച്ച് അല്പം കഴിഞ്ഞ് നമുക്ക് കാണാവുന്നതാണ് എന്നാൽ വ്യക്തമായും നടപ്പിലാക്കാൻ ഏറ്റവും ലളിതമായ ABC പ്രാദേശിക ABC ആണ് അതിനാൽ നമ്മൾ ഈ പ്രാദേശിക ABC വീണ്ടും FDTD യിൽ നടപ്പിലാക്കും തുടർന്ന് നമ്മൾ ആഗിരണം ചെയ്യുന്ന മാധ്യമങ്ങളിലേക്ക് പോകും അതിനാൽ കുറച്ച് ചരിത്രപരമായ പേരുകൾ ഇവിടെയുണ്ട് അതിനാൽ എൻക്വിസ്റ്റ് മജ്ദ എന്നിവയാണ് ആ പേരുകൾ അതിനാൽ CEM സാഹിത്യത്തിൽ ABC യുടെ ഒന്നും രണ്ടും ഓർഡറുകൾ നൽകിയ ശാസ്ത്രജ്ഞരാണ് ഈ വ്യക്തികൾ അതിനാൽ ഇത് 1977 ലാണ് അതിനുശേഷം മുർ എന്ന വ്യക്തി 1981 ൽ ആദ്യമായി അത് FDTD യിൽ പ്രയോഗിച്ചു അതിനാൽ FDTD അത്ര പഴയ ഒരു രീതി അല്ല വേണ്ടത്ര പ്രചാരം നേടുന്നതിന് അതിൻറെ കണക്കുകൂട്ടുന്ന ശക്തിയിൽ ഒരു നവീകരണം മാത്രം ആവശ്യമായിരുന്നു അതിനാൽ അതു ഉണ്ടായിരുന്നതു മുതൽ ഉള്ള അവസാന 30 വർഷങ്ങളും അതിനുശേഷവും അത് കൂടുതൽ സങ്കീർണ്ണമായ രീതിയിൽ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് അതിനാൽ മുമ്പത്തെപ്പോലെ FEM ൻറെ കാര്യത്തിൽ ഈ പ്രാദേശിക ABC നോക്കിയപ്പോൾ നമ്മൾ എന്താണ് ചെയ്തത് അപ്പോൾ നമ്മൾ തരംഗ സമവാക്യം നോക്കിയിരുന്നു അതിനാൽ നമ്മൾ വീണ്ടും എന്ന നമ്മുടെ സാധാരണ തരംഗ സമവാക്യത്തിലേക്ക് മടങ്ങും അവിടെ നമുക്ക് ഇതിൻറെ പരിഹാരം എന്ന രൂപത്തിൽ ആണെന്നറിയാം ഇതെല്ലാം ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഇപ്പോൾ ഞാൻ ഈ സമവാക്യം എഴുതാം അല്ലെങ്കിൽ ഇത് വ്യത്യസ്ത രീതിയിൽ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കാം ഇനിപ്പറയുന്ന രീതിയിൽ ഞാൻ ഈ സമവാക്യം എഴുതുന്നുവെന്ന് കരുതുക അപ്പോൾ അവ ആദ്യ ഓർഡർ ഡെറിവേറ്റീവുകളായി മാറുന്നു അതിനാൽ സമവാക്യം 1 ഇടത് വലത് എന്നീ ദിശയിലേക്ക് സഞ്ചരിക്കുന്ന തരംഗങ്ങളുടെ രണ്ട് പരിഹാരങ്ങളും തൃപ്തിപ്പെടുത്തി സമവാക്യം 2 ഉം സമവാക്യം 3 ഉം എന്താണ് അവയും ഇടത് വലത് തരംഗങ്ങളെ തൃപ്തിപ്പെടുത്തുന്നുണ്ടോ ഇല്ല അല്ലേ ഞാൻ ആദ്യ സമവാക്യം എടുക്കുന്നു എന്ന് കരുതുക ഏത് E ആണ് ഈ സമവാക്യം തൃപ്തിപ്പെടുത്തുന്നത് വലത്തേക്ക് പോകുന്ന തരംഗം ഞാൻ എടുക്കുന്നു എന്ന് കരുതുക ആദ്യത്തെ ഡെറിവേറ്റീവ് എനിക്ക് പ്ലസ് jk നൽകുന്നു രണ്ടാമത്തെ ഡെറിവേറ്റീവ് എനിക്ക് യും യും നൽകുന്നു അപ്പോൾ എനിക്ക് അത് തൃപ്തിപ്പെട്ടതായി ലഭിക്കുന്നു രണ്ടാമത്തെ സമവാക്യം എനിക്ക് എന്ന് നൽകുന്നു പക്ഷേ അത് മറ്റു സമവാക്യം തൃപ്തിപ്പെടുത്തുന്നില്ല അതിനാൽ ആഗിരണം ചെയ്യപ്പെടുന്ന അതിർത്തി വ്യവസ്ഥകൾ FEM ൽ എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തിയതെന്ന് ഓർക്കുക ഒരു നിശ്ചിത ദിശയിൽ സഞ്ചരിക്കുന്ന സമതല തരംഗമാണ് നമ്മൾ എടുത്തിരുന്നത് ഈ തരംഗ സമവാക്യം കൊണ്ട് തൃപ്തിപ്പെട്ട അവസ്ഥ എന്താണ് എന്ന് നമ്മൾ ചോദിച്ചു പ്രത്യേക ഡെറിവേറ്റീവുകൾ തമ്മിലുള്ള ബന്ധം എന്താണ് അതിർത്തിയിൽ ഞങ്ങൾ അത് നിർബന്ധമാക്കിയിട്ടുണ്ടോ എന്നും നമ്മൾ ചോദിച്ചിരുന്നു ശൂന്യതയിൽ സഞ്ചരിക്കുന്ന ഏതൊരു തരംഗത്തിനും ഇത് ശരിയാണെന്ന് പറയുകയാണെങ്കിൽ ഏത് ദിശയിലേക്കും സഞ്ചരിക്കുന്ന തരംഗത്തിൽ നമ്മൾ അത് നിർബന്ധമാക്കുകയും അത് കാരണം നമുക്ക് എന്തെങ്കിലും തെറ്റ് സംഭവിക്കുകയും ചെയ്യും അതേ ആശയമാണ് ഇപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത് കണക്കുകൂട്ടൽ മാധ്യമത്തിന്റെ വലതുവശത്തുള്ള അതിർത്തിയിൽ ആണിതെന്ന് നമുക്ക് പറയാം അതിനാൽ ഇതുപോലുള്ള ഒരു കണക്കുകൂട്ടൽ പ്രദേശം ഉണ്ട് ഇതാണ് ഇവിടെ എന്റെ അതിർത്തി അതിനാൽ അതിരുകളും ഒരു തരംഗവും ഇതുപോലെ സഞ്ചരിക്കുന്നു അതിൽ ഞാൻ ഈ നിബന്ധന ചുമത്തുന്നു യഥാർത്ഥത്തിൽ അവിടെ ശൂന്യത മാത്രമേയുള്ളൂവെങ്കിൽ ഞാൻ ഈ നിബന്ധന ചുമത്തുകയും ചെയ്താൽ വലതു വശത്തേക്കുള്ള സഞ്ചാര തരംഗത്താൽ എന്തെങ്കിലും സംഖ്യാപരമായ പ്രതിഫലനം കാണുമോ ഇതുപോലെ സഞ്ചരിക്കുന്ന ഒരു തരംഗം ഇതാ അതെങ്ങനെയാണ് സഞ്ചരിക്കുന്നത് അത് യീ സെല്ലിലെ യീ ഗ്രിഡിലൂടെ സഞ്ചരിക്കുന്നു സ്പെയ്സിനും സമയത്തിനുമനുസരിച്ച് FDTD ഓരോ തവണയും ഞാൻ മാറ്റി കൊണ്ടിരിക്കുമ്പോൾ ഈ അതിർത്തിയിലെത്തുന്നു ഇനി വലതുവശത്ത് കണക്കുകൂട്ടൽ പ്രദേശം ഇല്ല അതിനാൽ എനിക്ക് ചില അതിർത്തി വ്യവസ്ഥകൾ ചുമത്തേണ്ടതുണ്ട് ഇവിടെ ഈ അതിർത്തി വ്യവസ്ഥകൾ ഞാൻ ചുമത്തുന്നത് ഒരു നല്ല കാര്യമാണോ അതെ എന്നാൽ ഇതാണ് വലതുവശത്തെ ഏറ്റവും അറ്റത്തുള്ള അതിർത്തി ഈ അതിർത്തിയുടെ ഇടതുവശത്തായി എപ്പോഴും ചിതറിക്കിടക്കുന്നവയുണ്ട് അതിനാൽ ഇവിടെ എന്ത് സംഭവിക്കും നിസ്സാരമായും ശരിയാണ് ഇതൊരു 1 D പ്രോബ്ലം ആണെങ്കിൽ ഇവിടെ ഒരു പ്രശ്നവുമില്ല കാരണം ഇതൊരു തികഞ്ഞ അതിർത്തി അവസ്ഥയാണ് അതിനാൽ ഇത് FEM ൽ സംഭവിച്ചതുപോലെ അത് അനുയോജ്യമാണ് 1 D പ്രോബ്ലത്തിൽ പ്രതിഫലനം ഉണ്ടാകാത്തതിനാൽ ഇത് എല്ലായ്പ്പോഴും ശരിയാണ്